നമസ്കാരം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കിർചോഫ് കറണ്ട് kirchoff's current നിയമത്തിന്റെയും വോൾട്ടേജ് നിയമത്തിന്റെയും സഹായത്തോടെ നോഡൽ മെഷ് വിശകലനത്തെക്കുറിച്ച് ചർച്ച ചെയ്തു എസി സർക്യൂട്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് രണ്ട് സിദ്ധാന്തങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മൾ ചർച്ച ചെയ്യും എസി സർക്യൂട്ടുകളിൽ ആ സിദ്ധാന്തങ്ങൾ എങ്ങനെ നടപ്പാക്കുമെന്ന് മനസിലാക്കാൻ ശ്രമിക്കാം എസി സർക്യൂട്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് സൂപ്പർപോസിഷനും ഉറവിട പരിവർത്തന സിദ്ധാന്തവും നമുക്ക് മനസിലാക്കാം എസി സർക്യൂട്ട് ലീനിയർ ആയതിനാൽ ഡിസി സർക്യൂട്ടുകളുടെ കാര്യത്തിൽ എന്ന പോലെ നിങ്ങൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗപ്പെടുത്താം ഇപ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട പ്രധാന കാര്യം എസി സർക്യൂട്ടിന്റെ കാര്യത്തിൽ നമ്മൾ ചെയ്തതു പോലെ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ പ്രോസസ്സിംഗ് അല്പം വ്യത്യസ്തമാണ് കാരണം നിങ്ങളുടെ ഉറവിട ഓപ്പറേറ്റിംഗ് ആവൃത്തികൾ വ്യത്യസ്തമായിരിക്കും നിങ്ങൾക്ക് സർക്യൂട്ടിൽ കണക്റ്റു ചെയ്തിരിക്കുന്ന ഒന്നിലധികം ഉറവിടങ്ങളുണ്ടെങ്കിൽ ആ ഉറവിടങ്ങൾക്ക് വ്യത്യസ്ത ആവൃത്തികളുണ്ടെങ്കിൽ പ്രശ്നം രസകരമാവുകയും സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ അത്തരം പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് നമ്മൾ കാണുകയും ചെയ്യും വ്യത്യസ്ത ആവൃത്തിയിൽ പ്രവർത്തിക്കുന്ന വ്യത്യസ്ത സെറ്റ് വ്യത്യസ്ത വോൾട്ടേജ് അല്ലെങ്കിൽ നിലവിലെ ഉറവിടങ്ങൾ ഉള്ളപ്പോഴെല്ലാം ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും വാഗ്ദാനം ചെയ്യുന്ന ഇംപിഡൻസിന്റെ മൂല്യം വ്യത്യസ്തമായിരിക്കും എന്ന് നമ്മൾ കാണും സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ നമ്മൾ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിൽ നിന്ന് ലഭിക്കുന്ന വ്യക്തിഗത പ്രതികരണങ്ങൾ ചേർത്തുകൊണ്ട് മൊത്തം പ്രതികരണം ലഭിക്കും കൂടാതെ അന്തിമ ഫലത്തിനായി ടൈം ഡൊമെയ്നിലെ പ്രതികരണത്തെ നമ്മൾ പരിവർത്തനം ചെയ്യും സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ നമുക്ക് ലഭിക്കുന്ന പ്രതികരണങ്ങളെ ഫേസറിന്റെ രൂപത്തിൽ പരാമർശിക്കാൻ കഴിയില്ലെന്നത് ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം വ്യത്യസ്ത ഉറവിടങ്ങളുടെ ആവൃത്തികൾ വ്യത്യസ്തമായിരിക്കാം അത്തരം സന്ദർഭങ്ങളിൽ ഉത്തരത്തെ പ്രതിനിധീകരിക്കുന്നതിന് ഫേസർ ഫോം ഉപയോഗിക്കാൻ കഴിയില്ല അതിനാൽ സർക്യൂട്ട് വിശകലനത്തിനുശേഷം നമുക്ക് ലഭിക്കുന്ന ഉത്തരം നൽകുന്നതിനുള്ള ഒരു മാർഗ്ഗമായി നമ്മൾ ടൈം ഡൊമെയ്ൻ ഉപയോഗിക്കാം ഇപ്പോൾ എസി സർക്യൂട്ടിന് കീഴിലുള്ള കുറച്ച് ഉദാഹരണങ്ങളുടെ സഹായത്തോടെ സൂപ്പർപോസിഷൻ സിദ്ധാന്തം മനസിലാക്കാം ഈ പ്രത്യേക ഉദാഹരണത്തിൽ സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തിന്റെ സഹായത്തോടെ ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് വോൾട്ടേജ് ഉറവിടത്തിൽ നിന്ന് ഒഴുകുന്ന വൈദ്യുതധാരയാണ് വോൾട്ടേജ് ഉറവിടത്തിന് മാഗ്നിറ്റ്യൂഡ് ഉണ്ട് കൂടാതെ നമുക്ക് കറണ്ട് ന്റെ ഒരു സ്രോതസ്സും ഉണ്ട് മൊത്തം കറന്റ് ഉണ്ടാകുന്നത് രണ്ട് ഘടകങ്ങൾ നിന്നാണെന്ന് കരുതുക വോൾട്ടേജും കറണ്ട് എന്ന വെവ്വേറെ ഉറവിടങ്ങൾ കാരണത്താലാണ് എന്ന വൈദ്യുത ധാര ഘടകങ്ങൾ ഉണ്ടാകുന്നത് അതിനാൽ നിങ്ങൾ ഒരു സമയം ഒരു ഉറവിടം എടുക്കുവാൻ പാടുകയുള്ളൂ ഒരു സമയത്ത് വോൾട്ടേജ് ഉറവിടം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും എന്ന് കരുതുക നിങ്ങൾ കറണ്ട് ഉറവിടം മാത്രമേ എടുക്കുകയാണെങ്കിൽ ലഭിക്കും മൊത്തം കറന്റ് ആകും അതിനാൽ ആദ്യം വോൾട്ടേജ് ഉറവിടം മാത്രം നമ്മൾ കരുതുന്നു നമ്മൾ വോൾട്ടേജ് ഉറവിടം എടുക്കുമ്പോൾ കറന്റ് ഉറവിടം ഓപ്പൺ സർക്യൂട്ട് ചെയ്യും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ കണ്ടെത്തേണ്ട മൂല്യം ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ പരിഷ്കരിച്ച സർക്യൂട്ട് ആയിരിക്കും വോൾട്ടേജ് ഉറവിടമായതിനാൽ സങ്കീർണ്ണമായ രൂപത്തിൽ എന്ന് നമുക്ക് ഇത് സൌകര്യപ്രദമായി എഴുതാൻ കഴിയും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ സർക്യൂട്ടിൽ കപ്പാസിറ്റർ 8 ഓം റെസിസ്റ്റൻസ് j 10 ഓം ഇംപിഡൻസ് എന്നിവയുടെ സീരീസ് കോമ്പിനേഷനുമായി പാരലൽ ആയി കണക്ട് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും ഈ ബ്ലോക്കിന്റെ മൊത്തം ഇംപിഡൻസ് കണ്ടെത്താൻ നമ്മൾ ആദ്യം ശ്രമിക്കും എന്നിവയുടെ പാരലൽ കോമ്പിനേഷൻ ആണ് Z അതിനാൽ നിങ്ങൾ അത് പരിഹരിച്ചാൽ ലഭിക്കുന്നത് കറണ്ട് എന്നത് അടുത്തതായി നിങ്ങൾ കറണ്ട് ഉറവിടം പരിഗണിക്കണം വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ടും ആയി പരിഗണിക്കണം നിങ്ങളുടെ പരിഷ്ക്കരിച്ച സർക്യൂട്ട് ഇപ്പോൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതു പോലെ ആയിരിക്കും ഇവിടെ നിങ്ങൾക്ക് 5 ആമ്പിയർ കറണ്ട് ഉറവിടം സർക്യൂട്ടിൽ ഉണ്ട് വോൾട്ടേജ് ഉറവിടം ഷോർട്ട് സർക്യൂട്ട് ആണ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മൂന്ന് ലൂപ്പുകൾ ഉണ്ടെന്ന് നമുക്ക് കാണാം അതിനാൽ നമ്മൾ എന്തു ചെയ്യും ലൂപ്പ് കറന്റ് കണ്ടെത്താൻ നമ്മൾ കിർചോഫിന്റെ വോൾട്ടേജ് Kirchoff's Voltage നിയമം ഉപയോഗിക്കും മെഷ് 1 ലേക്ക് കെവിഎൽ പ്രയോഗിക്കുന്നു മെഷ് 2 ന് മെഷ് 3 ന് നിങ്ങൾ അടുത്തതായി ചെയ്യേണ്ടത് I3 യുടെ മൂല്യം മെഷ് 1 2 എന്നിവയുടെ സമവാക്യങ്ങളിൽ ഇട്ടു കൊടുക്കുക അപ്പോൾ ലഭിക്കുന്നത് അതിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് രണ്ട് സമവാക്യങ്ങളും രണ്ട് അജ്ഞാതമായ I1ഉം I2 ഉം ലഭിക്കുന്നു ഈ സമവാക്യത്തെ മാട്രിക്സ് രൂപത്തിൽ പ്രതിനിധീകരിക്കാം ഡിറ്റർമനൻറ്റ് ലഭിക്കുന്നത് ഈ നിർദ്ദിഷ്ട സമവാക്യത്തിനുള്ള പരിഹാരം കണ്ടെത്തുന്നതിനുള്ള ലക്ഷ്യം എന്നതിൻറെ മൂല്യം കണ്ടെത്തുക എന്നതാണ് പക്ഷേ ഇത് ലളിതമാക്കുമ്പോൾ ലഭിക്കുന്നത് കറന്റ് എന്നത് ലഭിക്കുന്നത് ഇപ്പോൾ നമുക്ക് മറ്റൊരു ഉദാഹരണം എടുക്കാം ഈ ഉദാഹരണം ശരിക്കും രസകരമായിരിക്കും കാരണം ഇവിടെ നമ്മൾ സൂപ്പർ പോസിഷൻ സിദ്ധാന്തം ഉപയോഗിച്ച് V0 ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ഈ സർക്യൂട്ടിൽ നമുക്ക് മൂന്ന് ഉറവിടങ്ങൾ ഉണ്ട് ഇവ മൂന്നും വ്യത്യസ്ത ആവൃത്തിയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഒരു ഡിസി വോൾട്ടേജ് ഉറവിടമാണ് നിങ്ങളുടെ ആവൃത്തി 0 ആണെന്നാണ് ഇതിനർത്ഥം ഇവിടെ നിങ്ങൾക്ക് ഉള്ള കറണ്ട് ഉറവിടമുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഉള്ള വോൾട്ടേജ് ഉറവിടമുണ്ട് അതിനാൽ നിങ്ങൾക്ക് വ്യത്യസ്ത ആവൃത്തികളിൽ വ്യത്യസ്ത ഉറവിടങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു സമയം ഒരു ഉറവിടം എടുത്ത് നമ്മൾ സൂപ്പർപോസിഷൻ സിദ്ധാന്തം ഉപയോഗിക്കുകയും സർക്യൂട്ട് പരിഹരിക്കുകയും അവസാനം ഔട്ട്പുട്ട് സംഗ്രഹിക്കുകയും അങ്ങനെ സർക്യൂട്ടിന്റെ അന്തിമ ഔട്ട്പുട്ട് ലഭിക്കുകയും ചെയ്യും ഈ സാഹചര്യത്തിൽ ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് എന്നിവ വ്യക്തിഗത വോൾട്ടേജ് പ്രതികരണങ്ങൾ ആണെന്ന് കരുതുക ഇവിടെ എന്നുള്ളത് 5 V dc ഉറവിടം മൂലമാണ് എന്നുള്ളത് വോൾട്ടേജ് ഉറവിടം മൂലമാണ് എന്നുള്ളത് കറണ്ട് ഉറവിടം മൂലമാണ് സംഭവിക്കുന്നത് അതിനാൽ മൊത്തം വോൾട്ടേജ് ആയിരിക്കും നമുക്ക് ഒരു സമയം ഒരു വോൾട്ടേജ് എടുക്കാം ആദ്യം നമുക്ക് ഡിസി വോൾട്ടേജ് 5 V എടുക്കാം ഇത് ഓപ്പൺ സർക്യൂട്ട് ആകും ഇത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും ഡിസി വോൾട്ടേജ് ഉറവിടത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനാൽ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കേണ്ടതാണ് അതിനർത്ഥം ഇൻഡക്റ്ററും ഷോർട്ട് സർക്യൂട്ട് ആകുമെന്നും കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ആകും എന്നാണ് പരിഷ്ക്കരിച്ച സർക്യൂട്ടിൽ എന്ത് സംഭവിക്കും എന്നാൽ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതുപോലെ കാണപ്പെടും 1 ഓം റെസിസ്റ്റൻസും 4 ഓം റെസിസ്റ്റൻസും ഉള്ള റെസിസ്റ്റൻസ് മാത്രമേ അവശേഷിക്കുകയുള്ളൂ ഈ പ്രത്യേക ഭാഗത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചത് 1 ഓം റെസിസ്റ്റൻസും 4 ഓം റെസിസ്റ്റൻസും ആണ് കപ്പാസിറ്റർ ഉള്ളത് ഈ മധ്യ ഭാഗത്തിൽ ആണ് എന്നാൽ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് ചെയ്യും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണ് ഇത് ഷോർട്ട് സർക്യൂട്ട് അതിനാൽ ഇടത് ഭാഗത്തുള്ള 2 ഓം പ്രതിരോധവും ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കും നമുക്ക് 1 ഓം 4 ഓം റെസിസ്റ്റൻസുകളും 5 വോൾട്ട് വോൾട്ടേജ് ഉറവിടവും മാത്രമേ ശേഷിക്കൂ നമ്മൾ ചെയ്യേണ്ടത് 1 ഓം പ്രതിരോധത്തിലുടനീളം ഉള്ള വോൾട്ടേജ് കണ്ടെത്തേണ്ടതുണ്ട് ഇതിനായി നമുക്ക് വോൾട്ടേജ് ഡിവിഷൻ ഉപയോഗപ്പെടുത്താം അതിനാൽ ആണ് രണ്ടാമത്തെ കേസ് നമ്മൾ 5 വോൾട്ട് ഡിസി ഉറവിടവും കറണ്ട് ഉറവിടവും 0 ആയി സജ്ജമാക്കും എന്നതാണ് ചിത്രം കാണുകയാണെങ്കിൽ ഇത് 0 ആണെന്നും ഇതും 0 ആണെന്നും മനസ്സിലാകും ഇപ്പോൾ ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്യും ഇത് ഓപ്പൺ സർക്യൂട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ പരിഷ്കരിച്ച സർക്യൂട്ട് എന്തായിരിക്കും കപ്പാസിറ്ററുമായി പാരലലായി നിങ്ങൾക്ക് ഇപ്പോൾ 4 ഓം റെസിസ്റ്റൻസ് ഉണ്ടാകും കൂടാതെ ഇൻഡക്റ്റൻസിനൊപ്പം സീരീസിൽ 1 ഓം റെസിസ്റ്റൻസ് ഉണ്ടാകും എന്താണ് നമ്മൾ ചെയ്യേണ്ട അടുത്ത ജോലി നോഡൽ മെഷ് വിശകലനം നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ആദ്യം ഈ ഘടകങ്ങൾ ഫ്രീക്വൻസി ഡൊമെയ്നിൽ പരിവർത്തനം ചെയ്യേണ്ടതുണ്ടെന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അതിനാൽ ഈ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നതിന് ആദ്യം സർക്യൂട്ടിനെ ഫ്രീക്വൻസി ഡൊമെയ്നായി മാറ്റും അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ സർക്യൂട്ട് വിശകലനത്തിന് തയ്യാറാണ് 1 ഓം പ്രതിരോധത്തിലുടനീളം നമ്മൾ വോൾട്ടേജ് കണ്ടെത്തേണ്ടതുണ്ട് ഇപ്പോൾ ഈ രണ്ട് ഘടകങ്ങളും പാരലൽ ആയതിനാൽ നിങ്ങൾക്ക് ഈ രണ്ട് ഘടകങ്ങളുടെയും പാരലൽ കോമ്പിനേഷൻ എടുക്കാം കൂടാതെ നിങ്ങൾക്ക് ഇംപിഡൻസ് കണ്ടെത്താനും കഴിയും Z ഇംപിഡൻസ് എന്താണ് ഈ സാഹചര്യത്തിൽ വോൾട്ടേജ് വിഭജനം അനുസരിച്ച് സമയ ഡൊമെയ്നിലെ വോൾട്ടേജ് ഇനിപ്പറയുന്നതായി പ്രതിനിധീകരിക്കുന്നു മൂന്നാമത്തേത് കറണ്ട് ഉറവിടമാണ് 5 V dc ഉറവിടവും വോൾട്ടേജ് ഉറവിടവും പൂജ്യമാകുമ്പോൾ ന്റെ മൂല്യം കണ്ടെത്തേണ്ടതുണ്ട് ഇവ രണ്ടും ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമെന്നാണ് ഇതിനർത്ഥം പരിഷ്ക്കരിച്ച സർക്യൂട്ടിൽ കറണ്ട് ഉറവിടം ഇൻഡക്റ്റൻസിന് പാരലൽ ആയി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതു പോലെ കാണപ്പെടും കപ്പാസിറ്റൻസും 4 ഓംറെസിസ്റ്റൻസിന്റെ പാരലൽ കോമ്പിനേഷൻ 1 ഓം റെസിസ്റ്റൻസിനു സീരീസ്സായി ആയി ഉണ്ട് നമ്മളുടെ ജോലി ഇത് ഫ്രീക്വൻസി ഡൊമെയ്നായി പരിവർത്തനം ചെയ്യണം എന്നതാണ് അതിനാൽ അതിനെ ഫ്രീക്വൻസി ഡൊമെയ്നായി പരിവർത്തനം ചെയ്യും അപ്പോൾ നമുക്ക് കണ്ടെത്തേണ്ടത് 1 ഓം റെസിസ്റ്റൻസിലുടനീളമുള്ള വോൾട്ടേജാണ് അതിനാൽ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ആദ്യം ഈ രണ്ട് പാരലൽ കോമ്പിനേഷനുകളും എടുത്ത് ലളിതമാക്കണം ഇവ രണ്ടും എടുക്കുമ്പോൾ ഫലപ്രദമായ ഇംപിഡൻസ് എന്നത് കറണ്ട് വിഭജനം അനുസരിച്ച് സമയ ഡൊമെയ്നിലെ വോൾട്ടേജ് ഇനിപ്പറയുന്നതായി പ്രതിനിധീകരിക്കുന്നു ഇപ്പോൾ മൊത്തം പ്രതികരണം നിങ്ങൾക്ക് വോൾട്ടേജോ കറണ്ട് ഉറവിടങ്ങളോ സർക്യൂട്ടിലേക്ക് കണക്റ്റു ചെയ്തിരിക്കുമ്പോഴും വ്യത്യസ്ത ആവൃത്തികൾ ഉള്ളപ്പോഴും സൂപ്പർ പോസിഷൻ സിദ്ധാന്തം നന്നായി പ്രവർത്തിക്കുന്നുവെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും നമുക്ക് ഉറവിട പരിവർത്തനത്തെക്കുറിച്ച് സംസാരിക്കാം ഉറവിട പരിവർത്തനത്തിന്റെ കാര്യത്തിൽ ഫ്രീക്വൻസി ഡൊമെയ്നിൽ ഒരു ഇംപിഡൻസിന് സീരീസ് ആയ വോൾട്ടേജ് ഉറവിടത്തെ പരിവർത്തനത്തിലൂടെ ഇംപിഡൻസിന് പാരലൽ ആയ ഒരു കറണ്ട് ഉറവിടത്തിലേക്ക് മാറ്റാവുന്നതാണ് അഥവാ ഇംപിഡൻസിന് പാരലൽ ആയി ഒരു കറണ്ട് ഉറവിടം ഉണ്ടെങ്കിൽ പരിവർത്തനത്തിലൂടെ ഇംപിഡൻസിന് സീരീസ് ആയ വോൾട്ടേജ് ഉറവിടത്തിലേക്ക് മാറ്റാവുന്നതാണ് നമ്മൾ അത് എങ്ങനെ പ്രകടിപ്പിക്കും ഇത് ഇങ്ങനെ പ്രകടിപ്പിക്കാം എന്ന ഇപിഡന്സുമായി സീരീസ് ആണ് ഈ വോൾട്ടേജ് ഉറവിടം

തുടർന്ന് ഇംപെഡൻസ് Zs ന് പാരലൽ ആണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതു പോലെ ഇംപിഡൻസിന് സീരീസ് ആയ വോൾട്ടേജ് ഉറവിടത്തെ പരിവർത്തനത്തിലൂടെ ഇംപിഡൻസിന് പാരലൽ ആയ ഒരു കറണ്ട് ഉറവിടത്തിലേക്ക് മാറ്റാവുന്നതാണ് സർക്യൂട്ട് പരിഹരിക്കാൻ നമുക്ക് ഈ ആശയം ഉപയോഗിക്കാം ഉറവിട പരിവർത്തനം ഉപയോഗിച്ച് ന്റെ മൂല്യം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് ഈ സാഹചര്യത്തിൽ ഉറവിട പരിവർത്തനം നമ്മൾ എങ്ങനെ നടത്തും നിങ്ങൾക്ക് 5 ഓം ഉപയോഗിച്ച് സീരീസ് ആയി വോൾട്ടേജ് ഉറവിടം ബന്ധിപ്പിച്ചിരിക്കുന്നതായി കാണാം ഈ പ്രത്യേക ഭാഗത്തിനെ പ്രതിരോധത്തിന് പാരലൽ ആയ കറണ്ട് ഉറവിടത്തിലേക്ക് തത്തുല്യമായ പരിവർത്തനം ചെയ്യാൻ കഴിയും ഇത് കറണ്ട് ഉറവിടമായി പരിവർത്തനം ചെയ്യാൻ കഴിയും ഈ കറണ്ട് ഉറവിടം 5 ഓം പ്രതിരോധത്തിന് പാരലൽ ആയിരിക്കും സർക്യൂട്ടിൽ ഈ രണ്ട് കാലുകളും പാരലൽ ആണ് അതിനാൽ കൂടുതൽ ലളിതമാക്കാൻ കഴിയും ഉം ഇൻറെ പാരലൽ കോമ്പിനേഷൻ ലളിതമാക്കാൻ കഴിയും തുല്യമായ ഇംപിഡൻസ് Z1 പാരലൽ ആയി ബന്ധിപ്പിച്ചിരിക്കുന്നു കറണ്ട് ഉറവിടം ഇംപിഡൻസിന് പാരലൽ ആണെന്ന് പറയാൻ കഴിയും നിങ്ങൾക്ക് ഇംപിഡൻസിന് സീരീസ് ആയ വോൾട്ടേജ് ഉറവിടത്തിലേക്ക് തിരികെ പരിവർത്തനം ചെയ്യാൻ കഴിയും അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് ഉറവിടത്തിന്റെ മൂല്യം എന്തായിരിക്കും വോൾട്ടേജ് ഉറവിടത്തിന്റെ മൂല്യം ഇതായിരിക്കും വോൾട്ടേജ് ഡിവിഷൻ പ്രകാരം സർക്യൂട്ടിൽ ഉറവിട പരിവർത്തനം തുടർച്ചയായി നടപ്പിലാക്കുന്നതിലൂടെ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ലളിതമാക്കാനും ന്റെ മൂല്യം വളരെ എളുപ്പത്തിൽ കണ്ടെത്താനും കഴിയും ഉറവിട പരിവർത്തനത്തെക്കുറിച്ചും സൂപ്പർപോസിഷൻ സിദ്ധാന്തത്തെക്കുറിച്ചും നമ്മൾ ചർച്ച ചെയ്ത ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം അടുത്ത സെഷനിൽ ഡിസി സർക്യൂട്ടിന്റെ രണ്ട് പ്രധാന സിദ്ധാന്തങ്ങളെക്കുറിച്ച് അതായത് തെവെനിന്റെയും thevinin's നോർട്ടന്റെയും സിദ്ധാന്തങ്ങൾ ചർച്ചചെയ്യും വിശകലനത്തിനായി എസി സർക്യൂട്ട് പരിഗണിക്കുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യും